ആശംസകളും മൊഡ്യൂൾ 1 യൂണിറ്റ് 5 ലെക്ക് സ്വാഗതവും യൂണിറ്റ് 4 ൽ ഞങ്ങൾ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം പരിശോധിച്ചു സ്കൂളുകളിൽ ഉടനീളം വിദ്യാർത്ഥികൾ എന്താണ് പഠിക്കുന്നതെന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നതിനുള്ള ഉപകരണങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ ആവശ്യകതയ്ക്കായി 1970 കളിൽ ഫലത്തെ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം നിർദ്ദേശിക്കപ്പെട്ടു ഇത് സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കുകയും പിന്നീട് ഉന്നത വിദ്യാഭ്യാസ പരിപാടികളിലേക്ക് വ്യാപിക്കുകയും ചെയ്തു ഒരു പ്രോഗ്രാം കോഴ്സ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷണൽ യൂണിറ്റിന്റെ അവസാനം വിദ്യാർത്ഥിക്ക് ചെയ്യാൻ കഴിയുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഫലമാണ് ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ നാല് നിലയിലുള്ള ലക്ഷ്യങ്ങളോ ഫലങ്ങളോ ഞങ്ങൾ തിരിച്ചറിഞ്ഞു തുടർന്ന് യൂണിറ്റ് 5 ലേക്ക് വരുമ്പോൾ അക്രഡിറ്റേഷന്റെ പങ്ക് മനസിലാക്കുക എൻബിഎ സ്വയം വിലയിരുത്തൽ റിപ്പോർട്ടിന്റെ മാനദണ്ഡങ്ങൾ മനസിലാക്കുക സിഒകൾ പിഒകൾ പിഎസ്ഒകൾ എന്നിവയുടെ നിലകളിൽ ഗുണനിലവാര ലൂപ്പ് അടയ്ക്കുന്നതിൽ എൻബിഎ അക്രഡിറ്റേഷന്റെ കേന്ദ്രീകരണം മനസ്സിലാക്കുക എന്നിവയാണ് ഞങ്ങളുടെ ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശ്യം ഇപ്പോൾ അക്രഡിറ്റേഷൻ എന്താണ് എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങളും ഒരു സ്കൂളായാലും എഞ്ചിനീയറിംഗ് കോളേജായാലും ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സർക്കാർ സർക്കാർ എയ്ഡഡ് അല്ലെങ്കിൽ സ്വകാര്യ സ്വാശ്രയ കോളേജ് ആകാം ഏത് രീതിയിലായാലും അത് ഒരു സാമൂഹിക സ്ഥാപനമാണ് മാതാപിതാക്കൾ സർക്കാർ വിദ്യാർത്ഥികൾ വ്യവസായങ്ങൾ മുതലായവയിൽ നിന്ന് ആരംഭിക്കുന്ന അത്തരമൊരു സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ താൽപ്പര്യമുള്ള നിരവധി ആളുകൾ ഉണ്ടെന്നാണ് ഇതിനർത്ഥം അതിനാൽ എല്ലാ പങ്കാളികളുടെയും ആവശ്യങ്ങൾ എന്താണെന്നും കുറഞ്ഞത് സമൂഹത്തിന്റെ ആവശ്യമനുസരിച്ച് പ്രോഗ്രാം നടക്കുന്നുണ്ടോ എന്നും ഒരാൾ മനസിലാക്കേണ്ടതുണ്ട് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ ബിരുദധാരികൾക്ക് ഒരു നല്ല എഞ്ചിനീയർക്ക് ആവശ്യമായ എല്ലാ സവിശേഷതകളും ഉണ്ടെന്ന് ഉറപ്പാക്കുന്നതിന് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ അക്രഡിറ്റേഷൻ അവതരിപ്പിച്ചു എന്നിരിക്കിലും എഞ്ചിനീയറിംഗ് സ്ഥാപനങ്ങൾ നല്ല എഞ്ചിനീയർമാരെ സൃഷ്ടിക്കേണ്ടതുണ്ട് അതിനാൽ നല്ല എഞ്ചിനീയർമാരെ ഉൽപാദിപ്പിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന പ്രക്രിയയാണ് അക്രഡിറ്റേഷൻ എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ അഭിലഷണീയമായ സവിശേഷതകൾ പല രാജ്യങ്ങളും തിരിച്ചറിഞ്ഞിട്ടുണ്ട് ചിലതിനെ പ്രോഗ്രാം ഫലങ്ങൾ എന്ന് വിളിക്കുന്നു ചിലപ്പോൾ ഗ്രാജ്വേറ്റ് ആട്രിബ്യൂട്ടുകൾ എന്നും 1990 മുതൽ വിളിക്കപ്പെടുന്നു നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ ഓഫ് ഇന്ത്യ 90 കളുടെ മധ്യം മുതൽ അക്രഡിറ്റേഷൻ നടത്തുന്നുണ്ടെങ്കിലും അവർ വ്യത്യസ്തമായ ഒരു പ്രക്രിയയാണ് പിന്തുടരുന്നത് എന്നാൽ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ പ്രോഗ്രാം ഫലങ്ങൾ 2015 ൽ മാത്രമാണ് ഇന്ത്യ തിരിച്ചറിഞ്ഞത് അതിനാൽ ഇന്നേ തീയതിയിൽ ഞങ്ങൾക്ക് ഏകദേശം 3 വയസ്സ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തെ2015 ന് മുമ്പ് വരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് നോക്കാം ഇതിന്റെ അർത്ഥം ബിരുദ എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ വാഗ്ദാനം ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഫാക്കൽറ്റി സ്ഥാപിതമായ ചില അക്കാദമിക് പ്രക്രിയകൾ എന്നിവയാൽ സവിശേഷപ്പെട്ടിരിക്കുന്നു പന്ത്രണ്ടാം ക്ലാസ് ബിരുദധാരികളാണ് പ്രധാന ഇൻപുട്ട് ഇടയ്ക്കിടെ നിങ്ങൾക്ക് ഡിപ്ലോമ പ്രോഗ്രാമുകളുടെ ബിരുദധാരികളിൽ നിന്ന് ഒരു സമാന്തര എൻട്രി ലഭിക്കും ഞങ്ങൾ അതിനെ സമാന്തര എൻട്രി എന്ന് വിളിക്കുന്നു എന്നാൽ പ്രധാനമായും പന്ത്രണ്ടാം ക്ലാസിലെ ബിരുദധാരികളാണ് ഇവിടെ വരുന്നത് ആരാണ് പ്രധാന പങ്കാളികൾ അവയെല്ലാം എങ്ങനെയെങ്കിലും അക്കാദമിക് പ്രക്രിയകൾ മാനേജ്മെന്റ് തുടങ്ങിയവയെ സ്വാധീനിക്കുന്നു ഇവിടെ മാതാപിതാക്കൾ വ്യവസായം സാങ്കേതികവിദ്യ എന്നിവ ഇവിടെ ഞങ്ങൾ പ്രധാനമായും വിവര കമ്പ്യൂട്ടിംഗ് സാങ്കേതികവിദ്യയെ പരാമർശിക്കുന്നു നിങ്ങൾക്ക് സർവകലാശാലകൾ സംസ്ഥാന സർക്കാർ എ ഐ സി ടി ഇ നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ എന്നിവയുണ്ട് എല്ലാ അക്കാദമിക് പ്രക്രിയകളിലും ഏതുതരം ഫാക്കൽറ്റി ആവശ്യമാണെന്നും മറ്റും എല്ലാവർക്കും ചില സ്വാധീനമുണ്ടാകും ഇവരെല്ലാം ചേർന്ന് ഈ സ്ഥാപനം എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ സൃഷ്ടിക്കുന്നു ആരാണ് എഞ്ചിനീയറിംഗ് ബിരുദധാരികൾ പരീക്ഷകളിൽ വിജയിക്കുന്നവർ അതാണ് ഈ ബിരുദധാരികൾ തേടുന്നത് വിശാലമായി മൂന്ന് പ്രവർത്തനങ്ങൾ മാത്രമേയുള്ളൂ ഒന്നുകിൽ അവർ ഒരു വ്യവസായത്തിൽ സ്ഥാനം നേടുന്നു അല്ലെങ്കിൽ ഗേറ്റ് ജിആർഇ ജിമാറ്റ് ക്യാറ്റ് തുടങ്ങിയ പരീക്ഷകൾ എഴുതി ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്നു അപ്പോൾ വളരെ ചെറിയ ശതമാനം സംരംഭകരായി മാറും അതിനാൽ പ്രബലമായി 80 ൽ കൂടുതൽ പേർ ബിരുദം നേടിയയുടനെ പ്ലേസ്മെന്റ് തേടുന്നു ഇപ്പോൾ ഈ പ്ലെയ്സ്മെന്റ് തേടൽ നിരവധി ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ഇവിടെ കുടുംബവുമായി ബന്ധപ്പെട്ട സാമൂഹിക ഘടകങ്ങളാണ് ആരെങ്കിലും ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും കുടുംബം ഉടൻ തന്നെ ജോലി തേടണമെന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തേക്കാൾ പ്ലേസ്മെന്റിനായി പോകാൻ അയാൾ നിർബന്ധിതനാകുന്നു അതുപോലെ സാമ്പത്തിക ഘടകങ്ങളും നിങ്ങൾ സംസാരിക്കുന്നത് തൊഴിലവസരങ്ങൾ ഉള്ള രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക ഘടകങ്ങൾ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതി ഉടനടി വിപണി ഘടകങ്ങൾ എന്നിവയെക്കുറിച്ചാണ് ഉദാഹരണത്തിന് കഴിഞ്ഞ 20 വർഷമായി എഞ്ചിനീയറിംഗ് ബിരുദധാരികളുടെ പ്രധാന തൊഴിൽ ദാതാവാണ് ഐടി വ്യവസായം അടുത്ത കാലം വരെ ഇതാണ് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം അതിനാൽ 2015 ന് മുമ്പുള്ള അക്രഡിറ്റേഷനിൽ ഇൻപുട്ടുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇൻപുട്ടുകൾക്ക് പാഠ്യപദ്ധതി നിങ്ങൾക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ നിങ്ങൾക്കുള്ള ഫാക്കൽറ്റി എന്നിവ അർത്ഥമാക്കാം തുടർന്ന് നിങ്ങൾക്ക് ചില പ്രക്രിയകൾ നടക്കുന്നു നിങ്ങൾ ഔട്ട്പുട്ടുകൾ അളക്കുന്നു ഔട്ട്പുട്ടുകൾ പ്രധാനമായും വിജയശതമാനം പ്ലെയ്സ്മെന്റുകൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി പോകുന്ന ബിരുദധാരികളുടെ എണ്ണം ഉൽപാദിപ്പിക്കുന്ന സംരംഭകരുടെ എണ്ണം എന്നിവയാണ് അതിനാൽ പ്രോസസ്സുകളും ഔട്ട്പുട്ടുകളും തമ്മിൽ ഒരു വലിയ അന്തരം ഉണ്ട് കൂടാതെ ഔട്ട്പുട്ടുകൾ വിദ്യാർത്ഥികൾ പഠിച്ച കാര്യങ്ങൾ അളക്കുന്നില്ലെന്ന് കണ്ടെത്തി സംഭവിച്ച ഒരു കാര്യം വിജയശതമാനം ചെറുതായി ചെറുതായി മാറുമ്പോൾ നിങ്ങളുടെ മാനേജുമെന്റിന്റെയും സ്ഥാപനങ്ങളുടെയും പ്രതികരണം നിങ്ങളുടെ വിലയിരുത്തൽ സംവിധാനം നിങ്ങളുടെ പരീക്ഷകൾ കഠിനമാണ് അതിനാലാണ് അവർ വിജയിക്കാതിരുന്നത് അതിനാൽ നിങ്ങൾ പരീക്ഷയുടെ നിലവാരത്തിൽ വെള്ളം ചേർക്കുന്നു വിജയശതമാനം ഉറപ്പാക്കുന്നത് അങ്ങനെയാണ് പരീക്ഷാ പേപ്പറുകളുടെ ഗുണനിലവാരം ഏകദേശം തുടർച്ചയായി കുറയുന്നു ഇപ്പോൾ അക്രഡിറ്റേഷൻ 2015 ശേഷം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇൻപുട്ടുകൾ പ്രോസസ്സുകൾ ഫലങ്ങൾ ഫലങ്ങളുടെ നേട്ടം ഔട്ട്പുട്ടുകൾ എന്നിവയിലാണ് അതിനാൽ എന്ത് സംഭവിക്കും ഒരു മദ്ധ്യവർത്തിയായ നിങ്ങൾ ഫലങ്ങൾ എന്ന് വിളിക്കുന്നതും 2015 ന് മുമ്പും പിമ്പും അക്രഡിറ്റേഷൻ പ്രക്രിയയെ വേർതിരിക്കുന്ന അവയുടെ നേട്ടവും അവതരിപ്പിച്ചു ബിരുദദാന സമയത്ത് വിദ്യാർത്ഥികൾ നേടിയ അറിവും നൈപുണ്യവും മനോഭാവവും എന്താണെന്ന് ഞങ്ങൾ പറഞ്ഞതു പോലെ ഫലങ്ങൾ പ്രതിനിധീകരിക്കുന്നു പ്രോഗ്രാം തലത്തിൽ എൻബിഎയും നിർദ്ദിഷ്ട പ്രോഗ്രാം കോഴ്സ് തലങ്ങളിൽ വകുപ്പും ഫലങ്ങളും തിരിച്ചറിയുന്നു ഫലങ്ങളുടെ നേട്ടം തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിന് സ്ഥാപനം ഫലങ്ങളുടെ നേട്ടം കണക്കാക്കുന്നതിന്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നു ഇവയാണ് 2015 ശേഷം അക്രഡിറ്റേഷൻ്റെ അടിസ്ഥാന സവിശേഷതകൾ ഇപ്പോൾ ഈ ചട്ടക്കൂട് എങ്ങനെ കാണപ്പെടുന്നു ഈ ഭാഗമെല്ലാം അതേപടി തുടരുന്നു ഒരേ തല്പരകക്ഷികൾ ഒരേ ഇൻപുട്ടുകൾ ഒരേ തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് അവർ നിർവചിക്കപ്പെട്ട കഴിവുകളുള്ള എഞ്ചിനീയറിംഗ് ബിരുദധാരികളെ സൃഷ്ടിക്കുന്നു പിഒകൾ പിഎസ്ഒകൾ സിഒകൾ എന്നിവ കണക്കിലെടുത്താണ് ഈ കഴിവുകൾ പ്രസ്താവിക്കുന്നത് അവർ പ്ലേസ്മെൻ്റും ഉന്നത വിദ്യാഭ്യാസവും സംരംഭകത്വവും തേടുന്നു അതേ ഘടകങ്ങൾ സ്വാധീനിക്കുന്നു എന്നാൽ നിങ്ങൾ അന്വേഷിക്കുന്നത് തിരിച്ചറിഞ്ഞ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ബിരുദാനന്തരം നാലുവർഷത്തിനുശേഷം ബിരുദധാരികൾ ഏർപ്പെടുന്ന പ്രവർത്തനങ്ങളാണ് അതിനർത്ഥം ഓരോ പ്രോഗ്രാമിനെയും പര്യാലോചിക്കുമ്പോൾ നമുക്ക് ഏതുതരം എഞ്ചിനീയർമാരാണ് വേണ്ടതെന്ന് കണ്ടെത്തുകയും ചെയ്യണം അവർ എങ്ങനെ ആകുകയും സമൂഹത്തെ സേവിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ പിഇഒകളുടെ അടിസ്ഥാനത്തിലാണ് അവ പ്രസ്താവിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ന് പറയുന്നു ഈ പിഇഒകൾ നേടിയിട്ടുണ്ടോ എന്ന് നിങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥികളുമായി കൃത്യമായി സർവേയിലൂടെ നാലോ അഞ്ചോ വർഷത്തിനുശേഷം അവർ കൃത്യമായി എവിടെയാണെന്ന് ഞാൻ എങ്ങനെ കണ്ടെത്തും നിങ്ങളുടെ ഫീഡ്ബാക്ക് PEO കൾ പറഞ്ഞതനുസരിച്ച് 100 അല്ല പ്രബലമായി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്ന് കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രോഗ്രാം ന്യായമായും വിജയകരമാണെന്ന് നിങ്ങൾക്ക് പരിഗണിക്കാം ഇപ്പോൾ യഥാർത്ഥ അക്രഡിറ്റേഷൻ പ്രക്രിയ എന്താണ് അംഗീകാരമുള്ള സ്ഥാപനത്തിലെ ഒരു പ്രോഗ്രാം കാലാകാലങ്ങളിൽ റെഗുലേറ്റർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിലും കവിയുന്നുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് അംഗീകൃത സ്ഥാപനത്തിലെ ഒരു പ്രോഗ്രാം വിമർശനാത്മകമായി അറിയിക്കുന്ന ഒരു പ്രക്രിയയാണ് അക്രഡിറ്റേഷൻ അതിനാൽ സാമാന്യമായി അക്രഡിറ്റേഷൻ നിർവ്വഹിക്കുന്ന മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിർവചിക്കുന്ന ഒരു ബാഹ്യ ഏജൻസി ഉണ്ട് പൊതുവെ അക്രഡിറ്റേഷൻ നടത്തുന്നത് സ്ഥാപനം നൽകിയ ഡാറ്റയെയും അതുപോലെ തന്നെ നന്നായി നിർവചിക്കപ്പെട്ട ഒരു പ്രക്രിയയെ പിന്തുടർന്ന് സ്ഥാപനം സന്ദർശിക്കുന്ന ഒരു പിയർ ടീമിനെയും അടിസ്ഥാനമാക്കിയാണ് കൂടാതെ മാനദണ്ഡങ്ങൾ എത്രത്തോളം നേടി അത് സംഖ്യകളായി വിവർത്തനം ചെയ്യുന്നു ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ സ്ഥാപനം ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ഒരുതരം അംഗീകാരമാണിത് ചില മാനദണ്ഡങ്ങൾ പാലിക്കുന്നുവെന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് മിനിമം ആവശ്യകതകളെക്കുറിച്ചാണ് ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിന് എൻബിഎ നിശ്ചയിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളേക്കാൾ മികച്ച രീതിയിൽ ചെയ്യാൻ കഴിയും അതിന് പരിധിയില്ല മിനിമം മാനദണ്ഡങ്ങൾ കൈവരിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന് മാത്രമാണ് ഇത് നിലവിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥാപനങ്ങളും ഈ പ്രോഗ്രാം ഫലങ്ങളുടെ പ്രാധാന്യം അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവയിൽ മിക്കതും ഈ ഫലങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്ന പഠനാനുഭവങ്ങൾ വേണ്ടവിധം ഉൾപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല എല്ലാത്തിനുമുപരി ഇത് 2015 ൽ മാത്രമാണ് അവതരിപ്പിക്കപ്പെട്ടത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സമൂഹത്തിന്റെ അല്ലെങ്കിൽ വ്യവസായത്തിന്റെയോ അക്രഡിറ്റേഷൻ ബോഡികളുടെയോ മാറിക്കൊണ്ടിരിക്കുന്ന ആവശ്യകതകളുമായി അതിവേഗം നീങ്ങുമെന്ന് കുപ്രസിദ്ധമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് മാത്രമാണ് ആളുകൾ എഴുതുന്നത് കാരണം എൻബിഎ നിങ്ങളുടെ കോഴ്സ് ഫലങ്ങൾ എഴുതുകയും ഫലങ്ങൾ നേടുന്നതിന്റെ തോത് എങ്ങനെയെങ്കിലും കണക്കാക്കുകയും വേണം എന്നാൽ പാഠ്യപദ്ധതി രൂപകൽപ്പനയുടെ ആരംഭ പോയിന്റായി പ്രോഗ്രാം ഫലങ്ങൾ ഉണ്ടാക്കുന്നത് ഭൂരിഭാഗം സ്ഥാപനങ്ങളിലും ഇനിയും ആരംഭിച്ചിട്ടില്ല കൂടാതെ എന്താണ് പ്രക്രിയ ഒരു സ്ഥാപനം അക്രഡിറ്റേഷൻ തേടുന്ന വകുപ്പുകളുടെ യോഗ്യതയെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു രേഖ സമർപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ എൻബിഎ വീണ്ടും നിർവ്വചിക്കുന്നു സ്ഥാപനം യോഗ്യതാ മാനദണ്ഡം എന്ന ഒരു രേഖ സമർപ്പിക്കുന്നു എൻബിഎ പ്രകാരം യോഗ്യതാ മാനദണ്ഡങ്ങൾ തെളിയിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാലിക്കപ്പെടുകയോ ചെയ്താൽ വളരെ വിശദമായ ഘടനയുള്ള സ്വയം വിലയിരുത്തൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ എൻബിഎ ഊദ്യോഗികമായി സ്ഥാപനത്തോട് അഭ്യർത്ഥിക്കുന്നു കൂടാതെ അക്രഡിറ്റേഷൻ തേടുന്ന പ്രോഗ്രാം സ്ഥാപനത്തിലൂടെ വിശദമായ ഒരു രേഖ സമർപ്പിക്കുന്നു സ്ഥാപനങ്ങളുടെ എസ്എആർ അല്ലെങ്കിൽ സ്വയം വിലയിരുത്തൽ റിപ്പോർട്ട് വകുപ്പ് തയ്യാറാക്കുന്നു സാധാരണയായി ഇതിന് 5 വർഷ കാലയളവിൽ ഡാറ്റ ഒത്തുനോക്കുകയും അവയെ ഒരു വലിയ സംഖ്യയായി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്തിട്ടുണ്ടെന്ന് സൂചിപ്പിക്കുന്നതിന് നിങ്ങൾ അവയെ ഏതെങ്കിലും തരത്തിലുള്ള സംഖ്യകളായി പരിവർത്തനം ചെയ്യുകയും വേണം പ്രോഗ്രാം വിലയിരുത്തുന്നതിന് എൻബിഎ പിയർ റിവ്യൂവിന്റെ സംവിധാനം ഉപയോഗിക്കുന്നു അതിനാൽ ഇത് വളരെ വിപുലമായ ഒരു പ്രക്രിയയായി മാറുന്നു ഈ പ്രക്രിയ പിന്തുടരുന്നതിലൂടെ പഠന നിലവാരം വളരെയധികം മെച്ചപ്പെടുമെന്ന് തോന്നുന്നു ഏതൊരു അക്രഡിറ്റേഷൻ പ്രക്രിയയുടെയും അടിസ്ഥാന വിശ്വാസം അതാണ് എന്താണ് സ്വയം വിലയിരുത്തൽ റിപ്പോർട്ട് ഒരു നിശ്ചിത പ്രോഗ്രാമിനെ അതിന്റെ വിലയിരുത്തലിനായി അതിന്റെ ശക്തിയും ബലഹീനതയും തിരിച്ചറിയുന്നതുമായി ബന്ധപ്പെട്ട അത്തരം ഡാറ്റയുടെയും വിവരങ്ങളുടെയും ഒരു സമാഹാരമാണ് എസ്എആർ കോളേജ് തന്നെ നിർവചിച്ച പിഒകളുടെയും പിഎസ്ഒകളുടെയും നേട്ടമാണിത് അതാണ് സ്വയം വിലയിരുത്തൽ റിപ്പോർട്ട് എസ്എആർ ന് രണ്ട് ഭാഗങ്ങളുണ്ട് ഭാഗം 1 തേടുന്നുത് സ്ഥാപന വകുപ്പുതല വിവരങ്ങളാണ് ഇത് പൂർണ്ണമായും ഡാറ്റയാണ് എത്ര വിദ്യാർത്ഥികൾ എത്ര ഫാക്കൽറ്റികളുണ്ട് എപ്പോഴാണ് പ്രോഗ്രാം ആരംഭിച്ചത് തുടങ്ങിയവ ഇതെല്ലാം സ്ഥാപന വകുപ്പുതല വിവരങ്ങളാണ് ഭാഗം 2 10 മാനദണ്ഡങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തേടുന്നു എൻബിഎ അക്രഡിറ്റേഷൻ പ്രക്രിയയുടെ വിശദാംശങ്ങളും പൂർണ്ണമായും പ്രത്യേക മൊഡ്യൂളിൽ ആവശ്യകതകൾ എങ്ങനെ നിറവേറ്റാമെന്നതും ഞങ്ങൾ പരിശോധിക്കും അവിടെ ഞങ്ങൾ എസ്എആർ ന്റെ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ സമയം ചെലവഴിക്കുന്നു ഇപ്പോൾ എസ്എആർ മാനദണ്ഡത്തിലേക്ക് വരുന്നു പ്രോഗ്രാം തലത്തിൽ ഒരാൾ നോക്കേണ്ടത് വിഷൻ മിഷൻ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ എന്നിവയാണ് ഇവിടെ മുഴുവൻ അക്രഡിറ്റേഷൻ സംവിധാനവും ഒരുതരം അടയാളപ്പെടുത്തൽ അനുസരിച്ചാണ് ചെയ്യുന്നത് പരമാവധി മാർക്ക് 1000 ആണ് ഈ 1000 മാർക്കുകളെ എൻബിഎയുടെ കാര്യത്തിൽ 10 മാനദണ്ഡങ്ങളായി തിരിച്ചിരിക്കുന്നു ഓരോ മാനദണ്ഡത്തിനും വ്യത്യസ്ത സെറ്റ് മാർക്കുകൾ ഉണ്ടായിരിക്കാം ഇന്ത്യയിൽ നിങ്ങൾക്ക് ടയർ 1 ടയർ 2 സ്ഥാപനങ്ങൾ എന്ന് വിളിക്കുന്ന രണ്ട് തരം സ്ഥാപനങ്ങളുണ്ട് ഐഐടികൾ എൻഐടികൾ മുതലായവയിൽ തുടങ്ങി ടയർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാദമിക് സ്വയംഭരണാധികാരമുള്ളതാണ് കൂടാതെ നിങ്ങൾക്ക് സർവകലാശാലയുമായി ബന്ധപ്പെടുത്തി നിരവധി സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് സർവ്വകലാശാലയുമായി അഫിലിയേറ്റ് ചെയ്യുമ്പോൾ അവർ ഇപ്പോഴും സർവകലാശാല സജ്ജീകരിച്ച ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുണ്ട് അതിനാൽ അവ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ആശ്രയിച്ച് മാർഗ്ഗനിർദ്ദേശങ്ങളോ പരിമിതികളോ ആയി രിക്കും എന്നാൽ അവ അക്കാദമിക് സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അതിനർത്ഥം അവർ സ്വന്തം കാര്യത്തിന് ഉത്തരവാദികളാണ് ഇന്ത്യയിൽ വളരെ അധികം ടയർ 2 സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിലെ 90 എഞ്ചിനീയറിംഗ് കോളേജുകളും ടയർ 2 വിഭാഗത്തിലാണ് അതിനർത്ഥം നിരവധി അക്കാദമിക് തീരുമാനങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അവ കേന്ദ്ര നിയന്ത്രിതമാണ് പാഠ്യപദ്ധതി എന്താണെന്ന് സർവകലാശാല നിർവചിക്കും അവസാന പരീക്ഷയ്ക്കും വിദ്യാർത്ഥികളുടെ പ്രകടനം വിലയിരുത്തുന്നതിനും ഫലങ്ങൾ എല്ലാം പ്രഖ്യാപിക്കുന്നതിനും ക്രമീകരിക്കുന്ന ഒന്നാണ് സർവകലാശാല അതിനാൽ ആ പരിധി വരെ ടയർ 1 ടയർ 2 സ്ഥാപനങ്ങൾ അല്പം വ്യത്യസ്തമാണ് വ്യത്യസ്ത മാനദണ്ഡങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്ന മാർക്ക് അവ വ്യത്യസ്തമാണ് എന്നാൽ മാനദണ്ഡം രണ്ടിനും ഒരുപോലെയാണ് വിഷൻ മിഷൻ പ്രോഗ്രാം വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഇവയ്ക്ക് ടയർ 1 50 മാർക്കും ടയർ 2 ന് 60 മാർക്കും ഉണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ ആദ്യമായി അക്രഡിറ്റേഷനായി വരുമ്പോൾ ഈ മാർക്ക് വീണ്ടും അനുവദിക്കും നിങ്ങൾ രണ്ടാം തവണ അക്രഡിറ്റേഷനായി വരുമ്പോൾ മാർക്ക് വ്യത്യസ്തമാണ് പക്ഷേ ഇത് ഇതുവരെ തീരുമാനിച്ചിട്ടില്ല കാരണം പുതിയ അക്രഡിറ്റേഷൻ മാനദണ്ഡം അല്ലെങ്കിൽ അക്രഡിറ്റേഷൻ പ്രക്രിയ അനുസരിച്ച് 2015 ലെ സവിശേഷതകൾ അനുസരിച്ച് ആരും ഇതുവരെ രണ്ടാം റൌണ്ട് അക്രഡിറ്റേഷന്റെ തലത്തിലേക്ക് വന്നിട്ടില്ല ഇപ്പോൾ പ്രോഗ്രാം കരിക്കുലം ടീച്ചിംഗ് ടീച്ചിംഗ് ലേണിംഗ് പ്രോസസ് എന്നിവയിലേക്ക് വരുമ്പോൾ ടയർ 1 100 മാർക്കും ടയർ 2 120 മാർക്കും വഹിക്കുന്നു പ്രോഗ്രാം ഫലങ്ങളും കോഴ്സ് ഫലങ്ങളും ടയർ 1 ന് 175 ഉം ടയർ 2 ന് 120 ഉം വിദ്യാർത്ഥികളുടെ പ്രകടനം ഇവിടെ ടയർ 1 ൽ 100 മാർക്കും ടയർ 2 ൽ 150 മാർക്കും ഫാക്കൽറ്റി വിവരങ്ങളും സംഭാവനകളും ഇവ രണ്ടിനും തുല്യമാണ് 200 മാർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള 1000 മാർക്കുകളിൽ 200 ഏറ്റവും വലിയ സംഖ്യ ആണ് ഈ പരിധി വരെ എൻബിഎ ഫാക്കൽറ്റി ബിരുദ വിദ്യാഭ്യാസത്തിലെ പ്രധാന ആൾക്കാരാണെന്നും യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നു അവർ യഥാർത്ഥത്തിൽ മാറ്റത്തിൻ്റെ ഏജന്റുമാരാണ് നല്ല എഞ്ചിനീയർമാരെ സൃഷ്ടിക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും ഫാക്കൽറ്റിയുടെ നിർണായക പങ്ക് അവർ ശരിക്കും തിരിച്ചറിയുന്നു സൌകര്യങ്ങളും സാങ്കേതിക പിന്തുണയും 80 മാർക്ക് വീതം ഒപ്പം തുടർച്ചയായ മെച്ചപ്പെടുത്തലും ഒരു വർഷം മുതൽ മറ്റൊന്ന് വരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി മെച്ചപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് നിങ്ങൾ തെളിയിക്കണം അതിനാൽ ടയർ 1 75 ഉം ടയർ 2 സ്ഥാപനങ്ങൾ 50 ഉം ഉൾക്കൊള്ളുന്നു ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ലെവൽ മാനദണ്ഡത്തിലേക്ക് വരുന്നത് സാധാരണയായി ഈ ദിവസങ്ങളിൽ ഒന്നാം വർഷ അക്കാദമിക് കോളേജിൽ സാധാരണമാണ് അവ വകുപ്പിന്റെ ഉത്തരവാദിത്തമല്ല അതിനാൽ ഒന്നാം വർഷ അക്കാദമിക് സ്ഥാപന ലെവൽ മാനദണ്ഡമാണ് അവർ 50 50 മാർക്ക് വീതവും സ്ഥാപനത്തിൽ നിങ്ങൾക്കുള്ള വിദ്യാർത്ഥി പിന്തുണാ സംവിധാനങ്ങൾ 50 50 ഉം ഭരണം സ്ഥാപന പിന്തുണ സാമ്പത്തിക വിഭവങ്ങൾ എന്നിവ 120 120 ഉം നൽകുന്നു ഇത് ഒരു സുപ്രധാന കാര്യമാണ് ഒരു നല്ല വിദ്യാഭ്യാസ സമ്പ്രദായമായ മുമ്പത്തെ അക്രഡിറ്റേഷൻ പ്രക്രിയയിൽ നിന്ന് വ്യതിചലിക്കാൻ നല്ല ഭരണവും ശരിയായ തരത്തിലുള്ള സാമ്പത്തിക സ്രോതസ്സുകളും ആവശ്യമാണ് കൂടാതെ 120 എണ്ണം വഹിക്കുന്നതിലൂടെ ആകെ 1000 മാർക്ക് അതിനാൽ 1000 മാർക്കുകളുള്ള ഒരു അടയാളപ്പെടുത്തൽ സംവിധാനത്തിനായി പോകുന്ന ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ അവ പല മാനദണ്ഡങ്ങളായി വിഭജിക്കുകയും നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിന്റെ എണ്ണത്തെ അടിസ്ഥാനമാക്കി ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യും ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നില്ല അവ ഒരു നിശ്ചിത പരിധി മറികടന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അംഗീകാരം ലഭിക്കുകയില്ല നിങ്ങൾ അംഗീകൃതമാണെങ്കിൽപ്പോലും അക്രഡിറ്റേഷൻ ഒരു നിശ്ചിത കാലയളവിനുള്ളതാണ് ഇത് 3 വർഷമാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന മാർക്കിനെ ആശ്രയിച്ച് 6 വർഷമാകാം ശരി നിങ്ങൾ വളരെ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്നുണ്ടെങ്കിൽപ്പോലും ഓരോ സ്ഥാപനവും അല്ലെങ്കിൽ ഓരോ പ്രോഗ്രാമും 6 വർഷത്തിനുശേഷം വീണ്ടും നിങ്ങൾ മികച്ച പ്രകടനം തുടരുകയാണെന്ന് തെളിയിക്കാണം ശരി ഇപ്പോൾ അക്രഡിറ്റേഷന്റെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ക്വാളിറ്റി ലൂപ്പ് അക്രഡിറ്റേഷന് ആവശ്യമായ എല്ലാ പ്രക്രിയകൾക്കും ലൂപ്പ് അടയ്ക്കുന്നതിനുള്ള ഈ ഘട്ടം ആവശ്യമാണ് ലൂപ്പിന്റെ ഈ അടയ്ക്കൽ പിടിച്ചെടുക്കാനുള്ള മാതൃക ഡെമിംഗിന്റെ ഗുണനിലവാര ചക്രമാണ് ഗുണനിലവാരവുമായി ബന്ധപ്പെട്ട കോഴ്സുകളുമായി പരിചയമുള്ള ഫാക്കൽറ്റിക്ക് അത് പരിചിതമായിരിക്കും "പ്ലാൻ" എന്താണ് പറയുന്നത് നിങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യണം കൂടാതെ നിങ്ങൾ പ്രകടനം നിർവ്വഹിക്കുകയും നടത്തിയോ ഇല്ലയോ എന്ന് അളക്കുകയും വേണം നിങ്ങൾ എത്രത്തോളം പ്രകടനം നടത്തി ടാർഗെറ്റ് സെറ്റിനോടനുബന്ധിച്ച് നിങ്ങൾ എത്രത്തോളം പ്രകടനം നടത്തിയെന്നും നിങ്ങൾ ടാർഗെറ്റിൽ നിന്നും വ്യതിചലനമുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അതിനായി പ്രവർത്തിക്കേണ്ടതുണ്ടെന്നും വീണ്ടും അടുത്ത തവണ നിങ്ങൾ ആ പ്രവർത്തനം വീണ്ടും ആവർത്തിക്കും അതിനാൽ ആസൂത്രണം ചെയ്യുക പരിശോധിക്കുക പ്രവർത്തിക്കുക എന്നതാണ് അടിസ്ഥാന ഗുണനിലവാര ലൂപ്പ് അതിനാൽ ഇത് പൂർത്തിയാക്കുന്നതിന് ഗുണനിലവാരമുള്ള ലൂപ്പ് പ്രവർത്തനം ആസൂത്രണം ചെയ്ത ലക്ഷ്യത്തെക്കാൾ പിന്നിലാണെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ഞങ്ങൾ കൂടുതൽ വിശകലനം ചെയ്യുകയും അടുത്ത തവണത്തേക്ക് അനുയോജ്യമായ തിരുത്തൽ നടപടികൾ ആസൂത്രണം ചെയ്യുകയും വേണം നേട്ടം ആസൂത്രിത ലക്ഷ്യത്തെ കവിയുന്നുവെങ്കിൽ ഞങ്ങൾ മാനദണ്ഡം ഉയർത്തേണ്ടതുണ്ട് അതിനർത്ഥം ഞാൻ ചെയ്യുന്നതിനേക്കാൾ മികച്ചത് ചെയ്യാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നു മാത്രമല്ല ഞാൻ മാനദണ്ഡം ഉയർത്തുകയും ചെയ്യുന്നു അതാണ് പ്രവർത്തനം വീണ്ടും ഞാൻ പറഞ്ഞതുപോലെ തുടർച്ചയായ മെച്ചപ്പെടുത്തൽ എൻബിഎ അക്രഡിറ്റേഷന്റെ മാനദണ്ഡങ്ങളിലൊന്നാണ് പഠന നിലവാരം വിദ്യാർത്ഥികൾ അധ്യാപകർ സാങ്കേതികവിദ്യ പാഠ്യപദ്ധതി ഇൻഫ്രാസ്ട്രക്ചർ സിസ്റ്റം നിർണ്ണയിക്കുന്ന പ്രക്രിയകൾ എന്നിവ ആശ്രയിച്ചിരിക്കും അവയെല്ലാം മാറുന്നു അതിനാൽ എന്ത് സംഭവിക്കുന്നു നിങ്ങൾക്ക് മെച്ചപ്പെടുത്തണമെങ്കിൽ അവ ഓരോന്നും നോക്കേണ്ടതുണ്ട് എങ്ങനെയെന്ന് കാണണം എനിക്ക് എന്താണ് ചെയ്യാൻ കഴിയുക ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ ആവശ്യമുണ്ടോ അതോ പുതിയ സാങ്കേതികവിദ്യയുടെ ഉപയോഗം ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ചില സിസ്റ്റം ലെവൽ മെച്ചപ്പെടുത്തലുകൾ നടക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിൽ തന്നെ മാറ്റം വരുത്തേണ്ടതുണ്ടോ ഗുണനിലവാരലൂപ്പ് അടയ്ക്കുന്നത് നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ വർദ്ധിക്കുന്ന മെച്ചപ്പെടുത്തലുകളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വകുപ്പുകളെ പ്രാപ്തമാക്കുന്നു നിലവിലെ എൻബിഎ അക്രഡിറ്റേഷന്റെ സാരാംശം പഠന നിലവാരത്തിലെ തുടർച്ചയായ മെച്ചപ്പെടുത്തൽ സ്വഭാവ സവിശേഷതയാണ് ഇപ്പോൾ ചില അസൈൻമെന്റുകളിലേക്ക് വരുന്നതിനാൽ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിക്കുക ഔട്ട്പുട്ടുകളും ഫലങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അക്രഡിറ്റേഷൻ ആർക്കാണ് പ്രയോജനം ലഭിക്കുന്നത് എങ്ങനെ പരമാവധി 250 വാക്കുകളിൽ എഴുതുക അക്രഡിറ്റേഷന്റെ ഗുണങ്ങളും ദോഷങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടിൽ എന്താണ് നിങ്ങൾ പഠിപ്പിച്ച ഒരു കോഴ്സുമായി ബന്ധപ്പെട്ട നിർദ്ദിഷ്ട ഘടകങ്ങളെക്കുറിച്ചുള്ള പഠന നിലവാരത്തെ ആശ്രയിച്ച് ഒരു ഡയഗ്രം വഴി നിങ്ങളുടെ സ്വന്തം കാഴ്ച അവതരിപ്പിക്കുക അന്തിമഫലത്തിന് കാരണമായ എല്ലാ ഘടകങ്ങളും എന്താണെന്ന് നിങ്ങളുടെ സ്വന്തം വീക്ഷണത്തിൽ നിങ്ങൾ മനസ്സിലാക്കുന്നു അതായത് നിങ്ങൾക്ക് ഇത് ഒരു ചിത്രത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയും ഒപ്പം നിങ്ങൾക്ക് കുറച്ച് അഭിപ്രായങ്ങൾ ചേർക്കാം എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകളുടെ രൂപകൽപ്പനയിലും പെരുമാറ്റത്തിലും പിഇഒകളുടെയും പിഎസ്ഒകളുടെയും സ്വഭാവവും പ്രാധാന്യവും മനസിലാക്കുന്നതിന് അടുത്ത യൂണിറ്റ് നോക്കും അതിനാൽ ഇനിപ്പറയുന്ന യൂണിറ്റിലെ പിഇഒകളെയും പിഎസ്ഒകളെയും ഞങ്ങൾ നോക്കുന്നു നിങ്ങളുടെ ശ്രദ്ധയ്ക്ക് നന്ദി